ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ I ഭാഗം 2 എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കുറിച്ചുള്ള നമ്മുടെ എൻ എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ മൊഡ്യൂൾ നമ്പർ 3 ലെക്ചർ 22 ലാണ് നിൽക്കുന്നത് ആദ്യത്തെ രണ്ട് മൊഡ്യൂളുകളിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകളെയും കോണിക് വിഭാഗങ്ങളെയും കുറിച്ചുള്ള ആമുഖത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു പ്രഭാഷണ നമ്പർ 21 മുതൽ നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ പ്രത്യേകിച്ച് 3 ഡി ഒബ്ജക്റ്റുകളെ കുറിച്ച് നോക്കുന്നു ഡ്രോയിംഗ് ഷീറ്റിൽ ഇത് പ്രതിനിധീകരിക്കുന്നതിനുള്ള മികച്ച മാർഗം ഏതാണ് ത്രിമാനത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള 2 ഡൈമൻഷണൽ പ്ലോട്ടുകളെ നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ എന്ന് വിളിക്കുന്നു അവസാന ക്ലാസ്സിൽ പ്രൊജക്ഷൻ പ്ലെയിനുകളെക്കുറിച്ചും അവയുടെ പാറ്റേണിനെക്കുറിച്ചും നമ്മൾ പഠിച്ചു ഉദാഹരണത്തിന് മേശയ്ക്ക് സമാന്തരമായി കിടക്കുന്ന പ്ലെയിനിനെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നാണ് നമ്മൾ നിർവചിക്കുന്നത് മറ്റൊന്ന് വെർട്ടിക്കൽ പ്ലെയിൻ ആണ് അത് പ്ലെയിനിന് ലംബമാണ് അവസാനത്തേത് ഈ X Y അക്ഷത്തിന്റെ വശത്തുള്ള ഒരു പ്രൊഫൈൽ പ്ലെയിൻ ആണ് പിന്നീട് നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനെക്കുറിച്ച് പഠിച്ചു അതിൽ പ്രൊഫൈൽ പ്ലെയിനിനെ 90 ഡിഗ്രി തിരിക്കും അതിനാൽ വെർട്ടിക്കൽ പ്ലെയിൻ മുകളിലത്തെ നിലയിലും ഹൊറിസോണ്ടൽ പ്ലെയിൻ താഴത്തെ നിലയിലും പ്രൊഫൈൽ പ്ലെയിൻ വലതുവശത്തും ആയിരിക്കും അതിനാൽ ഈ ദിശയിലേക്ക് ഈ പ്രൊഫൈൽ പ്ലെയിൻ ഫ്ലിപ്പുചെയ്യുന്നതിലൂടെ നമ്മൾ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ നിർമ്മിക്കും അതിനുശേഷം ഹൊറിസോണ്ടൽ പ്ലെയിൻ പ്രൊഫൈൽ പ്ലെയിൻ എന്നിവ നിർമ്മിക്കും എങ്ങനെയാണ് നമ്മൾ വസ്തുവിനെ നോക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ഒന്നാമതായി ഒരാൾ ഒരു ഫ്രണ്ട് വ്യൂ നിർമ്മിക്കേണ്ടതുണ്ട് സാധാരണയായി ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ നമ്മൾ ഫ്രണ്ട് വ്യൂ നിർമ്മിക്കുന്നു അതിനു തൊട്ടുതാഴെയായി ഒബ്ജക്റ്റിന്റെ ടോപ് വ്യൂ ഉണ്ടാകും ഉദാഹരണത്തിന് ഞാൻ ഒരു സിലിണ്ടർ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാണ് ത്രിമാന ഒബ്ജക്റ്റ് നമ്മുടെ വ്യൂ ഈ ദിശയിൽ നിന്ന് പിന്തുടരുന്നു ഈ ദിശയിൽ നിന്ന് സിലിണ്ടർ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സിലിണ്ടർ ആ വെർട്ടിക്കൽ പ്ലെയിനിൽ ഒരു വൃത്തം പോലെ കാണപ്പെടും ഇത് ഒരു ദീർഘചതുരം പോലെ കാണപ്പെടുന്ന ഫ്രണ്ട് വ്യൂ ആണ് അതിനാൽ ഈ മുഴുവൻ കാര്യങ്ങളും ഈ പ്ലെയിനിലേക്ക് മാപ്പ് ചെയ്യുക അതിനാൽ ഒരു രേഖ ആ വഴിയിലൂടെ പോകുന്നു നമുക്ക് അത് താഴെ നിന്നും ലഭിക്കും അതിനാൽ ഈ പ്രൊജക്ഷനെ നമ്മൾ ഇവിടെ ഫ്രണ്ട് വ്യൂ എന്ന് വിളിക്കുന്നു ഈ സിലിണ്ടറിനെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് വീണ്ടും മറ്റൊരു ദീർഘചതുരം പോലെ കാണപ്പെടുന്നു ഇതിനെയാണ് നമ്മൾ ടോപ്പ് വ്യൂ എന്ന് വിളിക്കുന്നത് അതിനാൽ ഒരു വശത്ത് ഇതിനെ എ ബി എന്ന് വിളിക്കാം ഈ ദിശയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് ഒരു ദീർഘചതുരം പോലെ കാണപ്പെടുന്നു നമ്മൾ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വീണ്ടും പൊരുത്തപ്പെടുന്നതിന് മുകളിലുള്ള കോർഡിനേറ്റുകൾ ടോപ്പ് വ്യൂ ആയിരിക്കും ഈ വശത്ത് നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടത് ദിശയിൽ നിന്ന് വലത് ദിശയിലേക്കാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അത് ഒരു വൃത്തം പോലെ കാണപ്പെടുന്നു ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന വൃത്തം അതിനാൽ ഇവിടെ നമ്മൾ ഒരു വൃത്തം കാണും ഇത്തരത്തിലുള്ള പ്രാതിനിധ്യത്തെ നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നു ഇവിടെ ഒബ്ജക്റ്റ് ആദ്യത്തെ കോർഡിനേറ്റിൽ സ്ഥാപിച്ചിരിക്കുന്നു നമ്മൾ ഇടത് വശത്ത് നിന്ന് വലതുവശത്തേക്ക് നോക്കുന്നു അതിനാൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രൊജക്ഷൻ വലതുവശത്ത് വരും നമ്മൾ ഇടത് വശത്ത് നിന്ന് നോക്കുന്നതിനാൽ അതിനെ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് വിളിക്കുന്നു കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണിത് അതിനാൽ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് പ്രൊജക്ഷനുകളെക്കുറിച്ചും തേർഡ് ക്വാഡ്രന്റ് പ്രൊജക്ഷനുകളെക്കുറിച്ചും നമ്മൾ കൂടുതൽ പഠിക്കും പൊതുവേ ഏതെങ്കിലും ഡ്രോയിംഗ് ഷീറ്റുകൾക്ക് രണ്ട് രീതികൾ ജനപ്രിയമാണ് ഒന്നിനെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നു രണ്ടാമത്തേത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ സിസ്റ്റമാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ സിസ്റ്റം യൂറോപ്യൻ രാജ്യങ്ങളിലും ഐ ഒ മാനദണ്ഡങ്ങളിലും വളരെ ജനപ്രിയമാണ് നമ്മുടെ ഈ കോഴ്സിലും ഈ എൻപിടിഎൽ ഓൺലൈൻ പ്രഭാഷണങ്ങൾക്കായി നമ്മൾ ഫസ്റ്റ് ആംഗിൾ സിസ്റ്റത്തിനൊപ്പം പോകുന്നു പണ്ടൊക്കെ തേർഡ് ആംഗിൾ സിസ്റ്റമായിരുന്നു ഉപയോഗിച്ച് കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് കാനഡ യുഎസ്എ ജപ്പാൻ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ഇത് ജനപ്രിയമായിരുന്നു അവർ ഈ തേർഡ് ആംഗിൾ സിസ്റ്റം ഉപയോഗിക്കുന്നു ഈ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ സിസ്റ്റത്തെക്കുറിച്ചോ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ സിസ്റ്റത്തെക്കുറിച്ചോ കൂടുതലറിയാൻ ഒന്നാമതായി ഒരു ത്രിമാന ക്വാഡ്രന്റ് സിസ്റ്റം വരയ്ക്കുക ആദ്യത്തെ ക്വാഡ്രന്റിലോ രണ്ടാമത്തെ ക്വാഡ്രന്റിലോ മൂന്നാമത്തെ ക്വാഡ്രന്റിലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിർവചിക്കാൻ പോകുന്ന അച്ചുതണ്ട് ഇവയാണെന്ന് നമുക്ക് പരിഗണിക്കാം അതിനാൽ ആ രീതിയിൽ പോകുന്ന ഒരു ബോക്സ് നിർമ്മിക്കാം അതിനാൽ ആദ്യത്തെ ക്വാഡ്രന്റിൽ ഒരു ബോക്സ് സ്ഥിതിചെയ്യുന്നു അതുപോലെ രണ്ടാമത്തെ ക്വാഡ്രന്റിൽ ഒരു ബോക്സ് കൂടി നിർമ്മിക്കുക അതുപോലെ തന്നെ മൂന്നാമത്തെ ബോക്സും നാലാമത്തെ ബോക്സും നിർമ്മിക്കുക ഡ്രോയിംഗിനായി നമ്മൾ പ്രധാനമായും തേർഡ് ക്വാഡ്രന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് സിസ്റ്റങ്ങളിലേക്കാണ് നോക്കുന്നത് അതിനാൽ ഈ സ്ലോട്ട് ബ്ലോക്ക് പോലെ തോന്നിക്കുന്ന ആദ്യത്തെ ക്വാഡ്രൻറ് സിസ്റ്റത്തിലാണ് ബോക്സ് സ്ഥാപിച്ചിരിക്കുന്നത് ആ ബോക്സിന്റെ കാഴ്ചകൾ നോക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്വാഡ്രന്റ് സിസ്റ്റങ്ങൾ എന്ന് വിളിക്കുന്നു ഈ സാഹചര്യത്തിൽ ഈ ബ്ലോക്ക് ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ സ്ഥാപിച്ചിരിക്കുന്നു അതിനാൽ അതിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഏത് കാഴ്ചകളെയും നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് വിളിക്കുന്നു അതുപോലെ ബ്ലോക്ക് മൂന്നാമത്തെ ക്വാഡ്രന്റിൽ സൂക്ഷിക്കുകയും ആ ദിശയിൽ നിന്ന് വസ്തുക്കളുടെ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നുവെങ്കിൽ അതിനെ തേർഡ് ക്വാഡ്രന്റ് സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്നു അതിനാൽ നിരീക്ഷകനെ അടിസ്ഥാനമാക്കി നമ്മൾ നേടുന്ന കാഴ്ചകളെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ അല്ലെങ്കിൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നു ഈ ബോക്സുകൾ ആദ്യത്തെ ക്വാഡ്രന്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വാഡ്രന്റ് എന്തിലായാലും ഇവ സാങ്കൽപ്പിക തരത്തിലുള്ള ബോക്സുകളാണ് ഇവ ഒരു പ്ലെയിനിൽ സുതാര്യവും മറ്റ് പ്ലെയിനുകളിൽ അതാര്യവുമാണ് ഉദാഹരണത്തിന് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് സിസ്റ്റം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ ആകെ 6 പ്ലെയിനുകൾ അടങ്ങിയിരിക്കുന്നു മുകളിലെ വശങ്ങളിലും താഴത്തെ വശങ്ങളിലും 4 പ്ലെയിനുകൾ ഉണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റ് സിസ്റ്റത്തിന് ചുവടെയുള്ള തലം എല്ലായ്പ്പോഴും അതാര്യമാണ് അതുപോലെ പുറകുവശവും അതാര്യമാണ് അതിനാൽ ഒരാൾക്ക് പുറകിൽ നിന്ന് ഇത് നിരീക്ഷിക്കാൻ കഴിയില്ല അതുപോലെ ഒരാൾക്ക് അത് താഴെ നിന്ന് നിരീക്ഷിക്കാൻ കഴിയില്ല എന്നിരുന്നാലും ഒരാൾക്ക് മുൻവശത്ത് നിന്ന് വസ്തു നിരീക്ഷിക്കാൻ കഴിയും അതുപോലെ ആരെങ്കിലും മുകളിൽ നിന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ അത് സുതാര്യമായ തലം കൂടിയാണ് അതിനാൽ ഒരാൾക്ക് ഇനിപ്പറയുന്ന രേഖകൾ നിരീക്ഷിക്കാനും ഒരാൾക്ക് ഈ ആഴത്തെ രേഖകളായി കാണാനും കഴിയും അതിനാൽ മുകളിൽ നിന്ന് ആരെങ്കിലും നോക്കുകയാണെങ്കിൽ ഈ രേഖകളുടെ ഹാഷ് ഭാഗം കാണാൻ കഴിയും അതുപോലെ ഒരാൾ ഈ ദിശയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് എല്ലായ്പ്പോഴും പുറകുവശത്ത് അതാര്യമാണ് എന്നാൽ ഇത് സുതാര്യമായ മതിലാണ് അതിനാൽ സുതാര്യമായ മതിലിൽ നിന്ന് നോക്കാം ഈ വസ്തുവിനെ രേഖകളായി കാണുന്നു അതിനാൽ ഈ രേഖ പൂർണ്ണമായും ഈ പോയിന്റുമായി യോജിക്കും നമ്മൾ ഇത് യോജിക്കുന്നു പോയിന്റായി കാണും കാഴ്ചയിൽ അത് ഇതുപോലൊന്ന് കാണും ഈ രേഖകൾ വെറും ഒരു രേഖയും വീണ്ടും യാദൃശ്ചിക രേഖയും ആയിരിക്കും ഇവിടെ വീണ്ടും ഒരാൾ ആ രേഖ കാണും അതിനാൽ സൈഡ് കാഴ്ചകളിൽ നിന്ന് ഈ പ്രൊജക്ഷനിൽ ഒരാൾ കാണുന്ന രേഖകളാണിത് അതിനാൽ ആ ഓർത്തോഗ്രാഫിക് വ്യൂ ഇതാണ് അതിനാൽ ഈ അതാര്യമായ പ്ലെയിനിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഈ പ്രൊജക്ഷനുകളെ നമ്മൾ സാധാരണയായി ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ എന്ന് വിളിക്കുന്നു ആ വസ്തുവിന്റെ ലംബ ദിശയിൽ നമ്മൾ നോക്കാൻ ശ്രമിക്കുകയാണ് നിരീക്ഷകൻ രേഖകൾ പ്രൊജക്റ്റുചെയ്യുന്നതിലൂടെ അദ്ദേഹം കാണുന്നതെന്തും ഒരു വിളക്കിൽ നിന്നുള്ള വെളിച്ചം ഉണ്ടെങ്കിൽ അതിനു സമാനമാണ് അത് ഏത് നിഴൽ രൂപപ്പെടുത്തുന്നുവെങ്കിലും കൃത്യമായി വസ്തുവിന്റെ പുറകിലുള്ള നിഴൽ എങ്ങനെ കാണപ്പെടുന്നുവെന്നതിനെ നമ്മൾ ഓർത്തോഗ്രാഫിക് വ്യൂ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് അതേ വസ്തുവിനായി പ്രകാശം കണ്ണിലൂടെ കടന്നുപോകുന്നുണ്ടെങ്കിൽ നാം അതിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ വസ്തുവിന് അല്പം സങ്കീർണ്ണമായ ആകൃതി ഉണ്ടായിരിക്കാം പ്രൊജക്ഷന് L ആകാരം മാത്രമേ നമ്മൾ കാണൂ ഇതിനെയാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് വിളിക്കുന്നത് നമ്മൾ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിരീക്ഷകൻ ഇതാണ് അതിനാൽ ഈ രേഖയിൽ നിന്ന് ഈ രേഖ ഉണ്ടാവുന്നു ഈ രേഖ ഈ രേഖയിൽ നിന്നാണ് ഉണ്ടാവുന്നത് ഇത് ആ രേഖയിൽ നിന്നാണ് ഉണ്ടാവുന്നത് അതുപോലെ ഈ രേഖ ഈ രേഖയിൽ നിന്നാണ് ഉണ്ടാവുന്നത് ഈ ഭാഗം യോജിക്കുന്നു അതിനാൽ നമ്മൾ ഒരു ആഴവും കാണുന്നില്ല ഇത് ഇതിനെ പിന്തുടരുന്നു അതുപോലെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ടോപ്പ് രേഖ യോജിക്കുന്നു ഇവിടെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേയ്ക്ക് ഒരു പടി പോലെയുള്ള ഒന്ന് ഉണ്ടെന്ന് നമ്മൾ കാണുന്നു അതിനാൽ ആ രേഖ ഈ രേഖയുമായി യോജിക്കുന്നു അതിനാൽ ഈ ചുവടെയുള്ള ഒരു രേഖയായി നമ്മൾ ഇതിനെ കാണുന്നു ഇതും ഈ ടോപ്പും ചുവടെയുള്ള ഒന്നുമായി പൊരുത്തപ്പെടുന്നു ഈ രേഖ മുഴുവൻ ഇതുപോലെയാണ് നമ്മൾ കാണുന്നത് അതുപോലെ ഈ രേഖ ആ ദിശയിലേക്ക് പോകുന്നുവെന്നും അത് മുകളിലേക്ക് പോകുന്നുവെന്നും നമ്മൾ കാണും അതിനാൽ അത് ആ രീതിയിൽ വരുന്നു ഈ നിരീക്ഷണങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ പ്രൊജക്ഷനുകളാണ് ഓർത്തോഗ്രാഫിക് വ്യൂ അതുപോലെ നിരീക്ഷകൻ സ്വാഭാവികമായി ഹാജരാകുന്ന ഈ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ മുൻവശത്ത് നമ്മൾ അത് ഇവിടെ കാണും ഇത് ഒരു പടി പോലെ പുറത്തുവരുന്നു അതിനാൽ അത് അങ്ങനെയാണ് പുറത്തുവരുന്നത് ഈ രേഖ മുഴുവൻ ആ പോയിന്റുമായി യോജിക്കുന്നു അത് മുകളിലേക്ക് പോകുന്നു അതിനുശേഷം മുകളിൽ നമ്മൾ കാണുന്നതെന്തും അത് ഈ രേഖകളുമായി പൊരുത്തപ്പെടുന്നതാണ് ഇത് കുറയുന്നു അതിനാൽ അത് ആ രീതിയിൽ വരുന്നു സൈഡ് പ്ലെയിനുകൾ അതാര്യമായ ഫസ്റ്റ് ക്വാഡ്രന്റ് സിസ്റ്റത്തിലെ ഓർത്തോഗ്രാഫിക് കാഴ്ചകളെ നമ്മൾ നോക്കുന്ന രീതികളാണിത് ചുവടെയുള്ള പ്ലെയിൻ അതാര്യവുമാണ് എന്നിരുന്നാലും മുന്നിലുള്ളവ സുതാര്യമായ ദിശയിലാണ് ഇതും സുതാര്യമായ ദിശയിലാണ് ഇതും സുതാര്യമായ ദിശയിലാണ് നമുക്ക് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ സിസ്റ്റം നോക്കാം നിരീക്ഷകരുടെ ദിശ സുതാര്യമാണ് ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ആ ദിശയിൽ ഒരു നിരീക്ഷകൻ ഉണ്ട് അതുപോലെ നിരീക്ഷകൻ ആ ദിശയിലേക്ക് നോക്കുന്നു നമ്മൾ എന്തും പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ കാണാൻ പോകുകയാണ് അതിനെ നമ്മൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത് ഇവിടെ നമ്മൾ ഒരേ വസ്തുവാണ് നോക്കുന്നതെങ്കിൽ എൽ ആകൃതി ഈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷനിൽ നിന്ന് വരുന്നു അതുപോലെ ഈ കാഴ്ചയിൽ ഈ പ്ലെയിനിന്റെ പ്രൊജക്ഷൻ ആ നിരീക്ഷക ദിശയിലേക്ക് നമ്മൾ കാണും അതുപോലെ നിരീക്ഷകൻ വീണ്ടും നോക്കാൻ ശ്രമിക്കുന്ന പ്ലെയിനിലേക്ക് വസ്തു പ്രദർശിപ്പിക്കും അതിനാൽ നമുക്ക് ഒരു കാഴ്ച കൂടി ലഭിക്കും അത്തരം കാര്യങ്ങളെ നമ്മൾ തേർഡ് ആംഗിൾ സിസ്റ്റം എന്ന് വിളിക്കുന്നു അതിനാൽ ഈ തേർഡ് ആംഗിൾ സിസ്റ്റം സുതാര്യമായ പ്ലെയിനുകൾ പോലെയാണ് ഗ്ലാസ് ബോക്സുകൾ പരസ്പരം കൂടിച്ചേർന്നത് പോലെയാണ് ഇവിടെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ വലുപ്പം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്ന കാഴ്ചകളെ ആശ്രയിച്ചിരിക്കുന്നു അവ അതാര്യവും നമ്മൾ കാണാൻ പോകുന്ന ദിശ സുതാര്യവുമാണ് അതിനാൽ സാധാരണയായി ഈ അനായാസം കാരണം നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ സിസ്റ്റത്തിനൊപ്പം പോകുന്നു ആർക്കും അവയിലേതു വേണമെങ്കിലും ഉപയോഗിക്കാം ഒരാൾക്ക് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനോ തേർഡ് ആംഗിൾ പ്രൊജക്ഷനോ ഉപയോഗിക്കാം ഈ ദിവസങ്ങളിൽ സാധാരണയായി ആളുകൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ പോലുള്ള സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളുമായി പോകുന്നു അതിനാൽ നമ്മുടെ കോഴ്സിലുടനീളം നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനുമായി പോകുന്നു ഈ രീതി പ്രയോജനകരമാണ് അല്ലെങ്കിൽ ആ രീതി ദോഷകരമാണ് എന്നൊന്നും ഇല്ല ഇത് ഒരു പ്രോട്ടോക്കോൾ മാത്രമാണ് ഈ പ്ലെയിനുകൾ നിരീക്ഷിക്കുന്നതിനുള്ള അനായാസം കാരണം നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ സിസ്റ്റവുമായി പോകുന്നു ഈ നിരീക്ഷണങ്ങൾ ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ അതിനെ 2 ഡി ഷീറ്റിൽ പ്രതിനിധീകരിക്കേണ്ടതുണ്ട് ഡ്രോയിംഗ് ഷീറ്റുകളിൽ 3 ഡി ഒബ്ജക്റ്റുകൾ നിർമ്മിക്കുകയെന്നാൽ അർത്ഥമാക്കുന്നത് നമ്മൾ ഒത്തുചേരൽ വ്യതിചലിക്കൽ കാര്യങ്ങൾ പോലുള്ള വ്യതിയാനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു എന്നാണ് അത് ഒഴിവാക്കാൻ ഈ കാഴ്ചകൾ ഒബ്ജക്റ്റിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നൽകുന്നു അതിനാൽ നമ്മൾ ഈ വസ്തുക്കളെ ആ പ്ലെയിനിലേക്ക് പ്രത്യേകിച്ച് അതാര്യമായ പ്ലെയിനിലേക്ക് പ്രദർശിപ്പിക്കുന്നു തുടർന്ന് അത് 2 ഡി ഷീറ്റിലേക്ക് നിർമ്മിക്കാൻ നമ്മൾ ഷീറ്റുകൾ ഫ്ലിപ്പുചെയ്യുന്നു ആ ഓർത്തോഗ്രാഫിക്സ് വിശദമായി നോക്കാം അതിനാൽ ഇവിടെ ഡ്രോയിംഗ് ഷീറ്റിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ ഈ കാഴ്ചകൾ നിർമ്മിക്കാൻ പോകുന്നു ഒബ്ജക്റ്റ് മധ്യത്തിൽ സൂക്ഷിക്കുന്നു ഒപ്പം പ്രൊജക്ഷനുകൾക്ക് ശേഷം നമുക്ക് ഓർത്തോഗ്രാഫിക് കാഴ്ചകൾ പോലുള്ള ഒന്ന് ലഭിക്കുന്നു ഇതിനു സമാനമായി നമുക്ക് ലഭിച്ച സൈഡ് വ്യൂ ഇതാണ് നമുക്ക് ലഭിച്ച ടോപ് വ്യൂയും ആ രീതിയിലാണ് ഫ്രണ്ട് വ്യൂയിലെ വെർട്ടിക്കൽ പ്ലെയിൻ ആദ്യം തീരുമാനിക്കുക എന്നതാണ് സാധാരണ നടപടിക്രമം അതിനുശേഷം ആ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടോപ് വ്യൂ ആയി പോകുക അതിനുശേഷം പ്രൊഫൈൽ പ്ലെയിനിൽ സൈഡ് വ്യൂ നിർമ്മിക്കുക അതിനാൽ ലെഫ്റ്റ് സൈഡ് വ്യൂ യിൽ നമ്മൾ മുന്നോട്ട് പോകുകയും അത് നിർമ്മിക്കുകയും പ്രതിനിധീകരിക്കുകയും ചെയ്യും ഇതാണ് നമ്മൾ മുന്നോട്ട് പോകുന്ന വഴി അതിനാൽ ഈ ഓർത്തോഗണൽ പ്ലെയിനുകളിൽ ഈ കാഴ്ചകൾ ലഭിച്ചുകഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പ്ലെയിനിനെ പ്രതിനിധീകരിക്കുന്നു നമുക്ക് ചുവന്ന പ്ലെയിൻ പരിഗണിക്കാം ഡ്രോയിംഗ് ഷീറ്റിൽ ഇതാണ് ഡ്രോയിംഗ് ഷീറ്റ് എങ്കിൽ നമ്മൾ ആദ്യം ഈ പ്ലെയിനിൽ വെർട്ടിക്കൽ പ്ലെയിൻലുള്ള ഒബ്ജക്റ്റിനെ കാണിക്കുന്നു ഇതാണ് ഫ്രണ്ട് വ്യൂ കാരണം ആദ്യം നമ്മൾ നിരീക്ഷിക്കുന്നത് ഈ ദിശയിലാണ് നിരീക്ഷകന്റെ മുൻ ദിശ എന്താണോ അതിനെ നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് വിളിക്കുന്നു അപ്പോൾ നമ്മൾ അതിന്റെ ഒരു കട്ട് എടുക്കുന്നു ഇത് ഒരു സാങ്കൽപ്പിക തരം കട്ട് ആണ് അതിനാൽ എനിക്ക് ഈ പേജ് താഴേയ്ക്ക് തിരിക്കാൻ കഴിയും അതിനാൽ നമുക്ക് ലഭിക്കുന്ന വ്യൂ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ഉണ്ടാക്കി 90 ഡിഗ്രി താഴേക്ക് തിരിക്കുക എന്നതാണ് അതിനാൽ മഞ്ഞ അല്ലെങ്കിൽ കടുക് നിറം പോലുള്ള ഒരു ഫ്ലിപ്പ് പ്ലെയിൻ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നു ഈ ദിശയിൽ കത്രിക ഉപയോഗിച്ച് ഫ്ലിപ്പു ചെയ്തതിനുശേഷം ആ ദിശയിലും കത്രിക ഉപയോഗിക്കുക 90 ഡിഗ്രിയിൽ മടക്കുക നമ്മൾ കാണാൻ പോകുന്നത് ചുവപ്പ് പോലത്തെ ഒന്നാണ് നമ്മൾ അത് ആ ദിശയിലേക്ക് മടക്കുകയാണെങ്കിൽ അത് ഇവിടെ വരണം ഇതും 90 ഡിഗ്രി ഫ്ലിപ്പുചെയ്യുക അങ്ങനെ ഇത് ഇവിടെ വരും ഫ്രന്റൽ പ്ലെയിൻ മടക്കുന്നതിലൂടെ നമുക്ക് ഫ്രണ്ട് വ്യൂ ലഭിക്കുന്നു ഇതാണ് നമ്മൾ കാണുന്ന ഫ്രണ്ട് വ്യൂ ബാക്കിയുള്ളവയും ഇങ്ങനെയാണ് അതിനാൽ ഒബ്ജക്റ്റിന്റെ കാഴ്ചകൾ സൃഷ്ടിക്കുന്ന രീതിയാണിത് അതുപോലെ അടുത്തതായി നമ്മൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷനുകൾ ഉണ്ടാക്കാൻ പോകുന്നു തേർഡ് ആംഗിൾ കാര്യത്തിനായി നമ്മൾ ഈ രേഖയിൽ ഒരു കത്രിക ഉപയോഗിച്ചു ആ ദിശയ്ക്ക് ചുറ്റുമുള്ള മടക്കാവുന്ന രേഖയിലൂടെ ഫ്ലിപ്പുചെയ്യുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് മുഴുവൻ ഈ സ്ഥാനത്തേക്ക് വരുന്നു അതുപോലെ നമ്മൾ ഇവിടെ കത്രിക ഉപയോഗിക്കുന്നതിനാൽ ഈ മുഴുവൻ പ്രൊജക്ഷനും എനിക്ക് ആ ദിശയിലേക്ക് തിരിയാനും മടക്കാനും കഴിയും അതിനാൽ ഞാൻ ഈ രേഖയിൽ 90 ഡിഗ്രി മടക്കുന്നതിലൂടെ ഈ പ്രൊജക്ഷൻ ഈ നിലയിലേക്ക് വരുന്നു അതിനാൽ നമുക്ക് കാഴ്ചകൾ വരയ്ക്കാം നിങ്ങളുടെ വ്യൂകളിൽ ഒന്നാണ് ഇത് മറ്റൊരു വ്യൂ ഇതാണ് ബാക്കിയുള്ളവ ശരിയാണ് കാരണം നമ്മൾ ആ ദിശയിലാണ് നിരീക്ഷിക്കുന്നത് അതിനാൽ ഫ്രണ്ട് വ്യൂ ഈ പ്ലെയിനിൽ വരുന്നു അതിനാൽ ഈ പ്ലെയിനിൽ സ്ഥാപിച്ചിരിക്കുന്ന ടോപ്പ് വ്യൂ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ നമ്മൾ ഇങ്ങനെ കാണും ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂവിന്റെ ഈ ലെവലിൽ സ്ഥാപിച്ചിരിക്കുന്നു നമ്മൾ അത് ഫ്ലിപ്പുചെയ്യുമ്പോഴെല്ലാം അത് ആ ദിശയിൽ വരുന്നു ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ സിസ്റ്റത്തിലെ മുമ്പത്തെ കേസിൽ ഈ പ്രൊജക്ഷനുകൾ നമ്മൾ നേടുന്ന രീതിയാണിത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ സിസ്റ്റത്തിൽ ഈ ഓർത്തോഗ്രാഫിക് കാഴ്ചകൾ പുനക്രമീകരിച്ച ശേഷം നമ്മൾ അതിനെ ഒരു വസ്തുവായി കാണുന്നു നമ്മൾ ഈ ദിശയിലേക്കാണ് നോക്കുന്നതെങ്കിൽ ഈ വസ്തുവിന്റെ വ്യൂകൾ നിരീക്ഷിക്കാം ഉദാഹരണത്തിന് നിരീക്ഷകൻ ഈ സ്ഥലത്താണ് വസ്തു അതാണ് ഫ്രണ്ട് വ്യൂ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് എന്റെ ഫ്രണ്ട് വ്യൂ ആയിരിക്കും ഫ്രണ്ട് വ്യൂ ആയി ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതും ഏതാണ് ടോപ്പ് വ്യൂ ആയി തിരഞ്ഞെടുക്കേണ്ടതും സൈഡ് വ്യൂ ആയി തിരഞ്ഞെടുക്കേണ്ടതുമായ നിയമങ്ങളെക്കുറിച്ച് പിന്നീട് നമ്മൾ പഠിക്കും സാധാരണയായി ലഭ്യമായ വിശദാംശങ്ങൾ ഉപയോഗിച്ച് ആ ദിശയിൽ നമ്മൾ ഫ്രണ്ട് വ്യൂ കാണും അതിനാൽ ഫ്രണ്ട് വ്യൂ ലഭിച്ചു കഴിഞ്ഞാൽ സാധാരണയായി ഷീറ്റുകൾ വരയ്ക്കുന്നതിന് അമ്പടയാളങ്ങൾ വഴി ദിശ നൽകുന്നു നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഫ്രണ്ട് വ്യൂ ദിശ ആ ദിശയിൽ ആരംഭിക്കുമെന്ന് സാധാരണയായി സൂചിപ്പിക്കുന്ന ഒരു അമ്പടയാളം ഉണ്ടാകും അതിനാൽ ഫ്രണ്ട് വ്യൂ ദിശ ആ രീതിയിൽ നിരീക്ഷിക്കപ്പെടുന്നുവെന്ന് ഇവിടെ നമുക്ക് അനുമാനിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് അതിനാൽ ഈ ദീർഘചതുരം ഒരു രേഖ പോലെ പോകുന്നതായി നമ്മൾ കാണും ഈ രേഖ ഈ രേഖയിലേക്ക് മാപ്പ് ചെയ്യുന്നു അതിനാൽ അവിടെ ഇത് മാപ്പ് ചെയ്യപ്പെടുന്നു അതിനാൽ നമ്മൾ കാണുന്നത് ഒരു ചെറിയ ദീർഘചതുരമാണ് അതിനുശേഷം ഫ്രണ്ട് വ്യൂ ലൊക്കേഷനിൽ ഒരു വലിയ ദീർഘചതുരം കാണും അതുപോലെ അതിനു മുകളിൽ നമ്മൾ ഈ ഒബ്ജക്റ്റ് കാണാൻ പോകുന്നു ഫ്രണ്ട് വ്യൂ നിർമ്മിച്ച ശേഷം ടോപ് വ്യൂയിൽ നിന്ന് നമ്മൾ അത് കാണണം ഇപ്പോൾ ഫ്രണ്ട് വ്യൂയുടെ ദിശ ഈ ദിശയാണ് അതിനാൽ നമ്മൾ ഇത് നിരീക്ഷിക്കുകയാണെങ്കിൽ ആ ദിശയിലേക്ക് അത് നോർമൽ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഭാഗവും ഈ ഭാഗവുമാണ് അതിനാൽ ഇത് ഇതുമായി യോജിക്കുന്നു ഇത് ഇതുമായി യോജിക്കുന്നു അതിനാൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് അതിനാൽ ആദ്യം ദിശ ആ രീതിയിലാണെന്ന് നമ്മൾ കാണുന്നത് അതിനാൽ നമ്മൾ നോക്കേണ്ടത് ആ പ്ലെയിനിൽ നമ്മൾ ഒരു പ്രൊജക്ഷൻ നോക്കുകയാണെങ്കിൽ അത് സംഭവിക്കുന്നതെന്തും പ്ലെയിനിൽ കാണാൻ പോകുന്നു അത് ആ ദിശയിലേക്ക് മടക്കിയ ശേഷം ടോപ് വ്യൂയിനായി നമ്മൾ ഈ രീതിയിൽ കാണുന്നു ഇപ്പോൾ സൈഡ് വ്യൂയിനെ കുറിച്ച് നോക്കാം ഇത് ഫ്രണ്ട് വ്യൂ ആയതിനാൽ ഇത് ടോപ് വ്യൂയാണ് ഒരാൾക്ക് പുറകിൽ നിന്നും നോക്കാം എന്നാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് സിസ്റ്റത്തിൽ ഇത് അതാര്യമായ പ്ലെയിനും സുതാര്യമായ പ്ലെയിൻ ഈ ദിശയിലുമാണ് അതിനാൽ നമ്മൾ അത് നോക്കുകയാണെങ്കിൽ ഈ മുഴുവൻ ഒബ്ജക്റ്റിന്റെയും സൈഡ് വ്യൂ ഇവിടെ മാപ്പ് ചെയ്യുന്നു കാരണം ഇപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ ദിശയിലാണ് ഇതാണ് ടോപ്പ് വ്യൂ ദിശ വലതുഭാഗത്ത് നിന്ന് നമ്മൾ അത് ഇടതുവശത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അതിനാൽ ഈ കാഴ്ചയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് വിളിക്കുന്നത് അതിനാൽ വലത് ഇടത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യ പെടും അതിനാൽ നമ്മൾഇടതുവശത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് വലതുവശത്തുള്ള കാര്യങ്ങൾ ആയിരിക്കും അതിനാൽ സ്വാഭാവികമായും ഇടത് പ്ലെയിൻ അതാര്യമായിരിക്കും നമ്മൾ ആ കാഴ്ച നേടാൻ പോകുന്നു അതിനാൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രൊജക്ഷൻ ആണ് അത് ഇതാണ് ഈ പ്ലെയിൻമുഴുവനും ഈ ഒന്നിനു കീഴിലുള്ളവയുമായി മാപ്പ് ചെയ്യപ്പെടുന്നു കാരണം ഒരു രേഖയുണ്ട് ഇത് ഒരു കട്ട് ആയി പോകുന്നു അതിനാൽ സാധാരണയായി ഇത് ഒരു പൂർണ്ണ ബ്ലോക്കാണെന്ന് പറയുന്നതിനുപകരം ചിത്രത്തിലെ ഡാഷ് ചെയ്ത രേഖയിലൂടെ നമ്മൾ അതിനെ പ്രതിനിധീകരിക്കുന്നു ഇത് ഒരു പൂർണ്ണ ബ്ലോക്കാണെങ്കിൽ അതിന് പിന്നിൽ ഒരു രേഖയുമില്ല അത് സൂചിപ്പിക്കുന്നതിന് ആ കട്ടിനെ ഡാഷ് ചെയ്ത രേഖകൾ ഉപയോഗിച്ച് നമ്മൾ പ്രതിനിധീകരിക്കുന്നു നിങ്ങൾ ഫ്രണ്ട് വ്യൂയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ദൃശ്യമായ ഒരു രേഖയുണ്ട് ഇത് ഒരു കട്ട് ആണ് പക്ഷേ ഇപ്പോഴും അത് ദൃശ്യമാണ് തുടർച്ചയായ ഒരു രേഖയിലൂടെ നമ്മൾ ഇത് കാണിക്കുന്നതിനുള്ള ഒരു കാരണമാണിത് എന്നിരുന്നാലും സൈഡ് വ്യൂവിൽ ഒരു കട്ട് ഉണ്ട് നമ്മൾ ഇത് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് കാണാൻ കഴിയില്ല അതിനാൽ സങ്കീർണ്ണമായ അളവുകളെയോ ദിശകളെയോ പ്രതിനിധീകരിക്കുന്നതിന് നമ്മൾ അത് ഒരു ഡാഷ് രേഖയിലൂടെ കാണിക്കുന്നു മൂന്നാം ആംഗിൾ സിസ്റ്റത്തിൽ ഈ കാഴ്ചകൾ പകരമായി ക്രമീകരിക്കും അതിനാൽ ആദ്യത്തെ ഫ്രണ്ട് വ്യൂ താഴത്തെ നിലയിൽ വരും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ സിസ്റ്റത്തിൽ മുകളിൽ ഒരു ഫ്രണ്ട് വ്യൂയും അതിനു താഴെ ടോപ് വ്യൂയും ഈ റൈറ്റ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂയും ആയി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഫ്രണ്ട് വ്യൂ കേന്ദ്രമാണ് അത് മുകളിലെ റൈറ്റ് സൈഡ് വ്യൂ അല്ലെങ്കിൽ ഒരുപക്ഷേ ലെഫ്റ്റ് സൈഡ് വ്യൂ വഴി ബന്ധിപ്പിക്കും അതേസമയം മൂന്നാം ആംഗിൾ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ സിസ്റ്റത്തിൽ അതേ ഒബ്ജക്റ്റിനായി ഫ്രണ്ട് വ്യൂ താഴത്തെ നിലയിൽ വരുന്നു ടോപ് വ്യൂ മുകളിലത്തെ നിലയിലേക്കും വലതുവശത്തെ കാഴ്ച വലതുവശത്തേക്കും വരുന്നു അടുത്ത ക്ലാസ്സിൽ സിസ്റ്റത്തിന്റെ പ്രൊജക്ഷനുകളെക്കുറിച്ച് നമ്മൾ കൂടുതലറിയും